അതിനാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം സമഗ്ര സമവാക്യം ഞങ്ങൾ രൂപപ്പെടുത്തി അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല അതിനാൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ ഇപ്പോൾ നോക്കും ഇത് പരിഹരിക്കുന്നത് ഈ സാഹചര്യത്തിലെങ്കിലും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾ കാണും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിനാൽ നമുക്ക് ഇത് ഒരിക്കൽ കൂടി വരയ്ക്കാം അതിനാൽ ഇത് എന്റെ z x y ആയിരുന്നു ഏതൊരു സമവാക്യത്തിന്റെയും ഏത് സിസ്റ്റത്തെയും പോലെ അത് പരിഹരിക്കാനുള്ള ആദ്യത്തെ തന്ത്രം അതിനെ വിവേചനാധികാരം ചെയ്യുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ അതേ കാര്യം പിന്തുടരും എന്റെ വേരിയബിൾ rho ഓഫ് y ആണ് അതിനാൽ ഞാൻ y അക്ഷത്തിൽ ഡിസ്ക്രിറ്റൈസ് ചെയ്യണം അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഇത് ഇതുപോലെ ചെറിയ സെഗ്മെന്റുകളായി വേർതിരിച്ച് ഓരോ സെഗ്മെന്റിനും കുറച്ച് വീതി നൽകുകയും ചെയ്യും നമുക്ക് ഇത് ലളിതമായ സ്ഥിരമായ വീതി മൂലധന ഡെൽറ്റയായി നിലനിർത്താം അങ്ങനെയാണ് ഞാൻ അതിനെ വിവേചനാധികാരം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ചാർജ് അജ്ഞാതമായ ഒരു വൺ ഡൈമൻഷണൽ ലൈൻ ചാർജ് ആയി ഞാൻ പറഞ്ഞതുപോലെ ഉപരിതലത്തിൽ ഇവിടെ ഇരിക്കുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതൊരു ചെറിയ തന്ത്രമാണ് ഈ അജ്ഞാത ഫംഗ്ഷൻ ഇവിടെയുണ്ട് ഓരോന്നിനും ഒരു ഗുണകവും ഫംഗ്ഷനും ഉള്ള n ഫംഗ്ഷനുകളുടെ ആകെത്തുകയാണ് ഞാൻ ഇത് എഴുതുന്നത് അപ്പോൾ ഇത് ഇവിടെ എന്താണ് പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഇവിടെ എഴുതിയത് അപ്പോൾ ഈ സ്പന്ദനം എങ്ങനെയുള്ളതാണ് അതിനാൽ ഒന്നാമതായി ക്യാപിറ്റൽ N പൾസുകൾ ഉണ്ട് ഈ പൾസിന്റെ നിർവചനം ഞാൻ ഉപയോഗിച്ചത് അത് n ാം സെഗ്മെന്റിനുള്ളിൽ 1 ഉം മറ്റെല്ലായിടത്തും 0 ഉം ആണ് എന്നതാണ് അതിനാൽ ഞാൻ ഇത് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതാണ് ശരി അതിനാൽ ഈ ഫംഗ്ഷൻ 1 ഇവിടെയും 0 മറ്റെവിടെയും ആണ് ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഇതിനെ നിങ്ങളുടേത് എന്ന് വിളിക്കാം ഇപ്പോൾ എനിക്ക് നിങ്ങളെ പ്ലസ് വൺ കാണിക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഈ പൾസ് മുമ്പത്തെ ഫംഗ്ഷനുമായി ഓവർലാപ്പ് ചെയ്യുമോ ശരിയല്ല അത് വലത്തോട്ട് ആയിരിക്കും അതിനാൽ ഞാൻ ഇത് ഇവിടെ വരച്ചാൽ എന്നോട് ക്ഷമിക്കണം ശരി അതിനാൽ ഇത് ശരിയായിരിക്കും അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ആശയം വ്യക്തമാണ് പൾസുകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഈ ഫംഗ്ഷനെ ഏകദേശം കണക്കാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ എനിക്ക് ഇതുപോലൊരു ചടങ്ങ് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്കറിയാം ഇതാണ് യഥാർത്ഥ ഫംഗ്ഷൻ എങ്കിൽ ഈ ഫംഗ്ഷന്റെ ഒരു കഷണം ജ്ഞാനമുള്ള സ്ഥിരമായ ഏകദേശം ശരിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്റെ ഫംഗ്ഷനെ ഞാൻ ഇങ്ങനെയാണ് കണക്കാക്കാൻ പോകുന്നത് ഇത് അസംസ്കൃതമാണ് പക്ഷേ ഇത് ചെയ്യുന്നത് ഒരു ഗണിതത്തെ എളുപ്പമാക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ സങ്കീർണ്ണമാക്കുന്നത് എങ്ങനെയെന്ന് പിന്നീട് നോക്കാം അതിനാൽ ഇവയാണ് അവയുടെ ശരിയായ പദാവലി ഇവയെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു അടിസ്ഥാന ഫംഗ്ഷൻ തിരഞ്ഞെടുത്തു അവ ഏറ്റവും ലളിതമായ അടിസ്ഥാന ഫംഗ്ഷനുകൾ പൾസ് ബേസ് ഫംഗ്ഷനുകളാണ് അതിനാൽ ഞങ്ങൾ ഇതിനെ rho എന്നതിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും ഇപ്പോൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഒരു ചടങ്ങായിരുന്ന ഈ റോ അജ്ഞാതമാണെന്ന് ഓർക്കുക ഒരു ഫംഗ്ഷനായി പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ എന്റെ ജീവിതം കുറച്ചുകൂടി ലളിതമാക്കട്ടെ മറ്റെന്തെങ്കിലും പരിഹരിക്കാൻ അനുവദിക്കുക അതിനാൽ ഞാൻ റോയിൽ നിന്ന് ഇയാളായി മാറിയപ്പോൾ എനിക്ക് എന്താണ് അജ്ഞാതമായത് വിദ്യാർത്ഥി a യുടെ as a യുടെ അവകാശം അതിനാൽ ഇവ ഇപ്പോൾ എന്റെ അജ്ഞാതങ്ങളാണ് അതിനാൽ അജ്ഞാതവും അവ പ്രവർത്തനങ്ങളാണോ അതോ സ്കെയിലറുകളാണോ വിദ്യാർത്ഥി സ്കെയിലറുകൾ സ്കെയിലറുകൾ ശരിയാണ് അതിനാൽ എയ്ക്കായി പരിഹരിക്കുന്നതോ പരിഹരിക്കുന്നതോ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു വിദ്യാർത്ഥി A ഒരു അവകാശം ഒരു മുഴുവൻ ഫംഗ്ഷനും പരിഹരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമുള്ള ഒരു കൂട്ടം സംഖ്യകൾക്കായി ഞാൻ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ rho യ്ക്കുള്ള ഈ പദപ്രയോഗം മുമ്പത്തെ വോൾട്ടേജ് സമവാക്യത്തിലേക്ക് പ്ലഗ് ചെയ്യുകയും ഈ എക്സ്പ്രഷൻ ഫലിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇടതുവശം യഥാർത്ഥത്തിൽ 1 വോൾട്ട് ആയിരുന്നു അപ്പോൾ ഇടതു വശത്ത് കിട്ടിയത് പഴയ പോലെ തന്നെ ഇപ്പോൾ ഈ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നു എന്നതിലേക്ക് മടങ്ങും അതിനാൽ ഈ സമവാക്യം പരിഹരിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ മുമ്പ് ചെയ്തത് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞുനോക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിന്റുകൾ തിരഞ്ഞെടുക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവിടെ എനിക്ക് സാധ്യതകൾ അറിയാം ഞാൻ ആ പോയിന്റുകൾ തിരഞ്ഞെടുത്തത് വയറിന്റെ വലതുവശത്തുള്ള അച്ചുതണ്ടിലാണ് അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ n സെഗ്മെന്റുകൾ ഉണ്ട് എന്നതാണ് അതിനാൽ ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ y 1 ആണ് ഈ സമയം ഞങ്ങൾ അതിനെ വിളിക്കരുത് എന്റെ പക്കലുള്ളത് N മൂലധനം N പൾസുകൾ ശരിയാണ് അതിനർത്ഥം ഇവിടെ ക്യാപിറ്റൽ N സെഗ്മെന്റുകൾ ഉണ്ട് എന്റെ അജ്ഞാതരുടെ എണ്ണം N N ആണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നിരീക്ഷണ പോയിന്റ് തിരഞ്ഞെടുക്കാം അവയെ വ്യവസ്ഥാപിതമായി തിരഞ്ഞെടുക്കാം അതിനാൽ ഈ ഓരോ n സെഗ്മെന്റിന്റെയും മധ്യഭാഗം നമുക്ക് തിരഞ്ഞെടുക്കാം അതിനാൽ ഉദാഹരണത്തിന് ഇതിനെ നമുക്ക് ഈ mth സെഗ്മെന്റിനെ വിളിക്കാം നമുക്ക് ഇതിനെ വിളിക്കാം ഞാൻ ഫംഗ്ഷൻ വിലയിരുത്തുന്ന സ്ഥലത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ അതിനെ പൊരുത്ത പോയിന്റ് എന്നും വിളിക്കുന്നു മുമ്പ് y പ്രൈമുകളെ നമ്മൾ സോഴ്സ് പോയിന്റുകൾ എന്ന് വിളിച്ചിരുന്നു കാരണം അവിടെയാണ് സോഴ്സ് ചാർജുകളും അച്ചുതണ്ടിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന അനുബന്ധ സ്ഥലവും ഞാൻ അവയെ മാച്ചിംഗ് പോയിന്റുകൾ എന്ന് വിളിച്ചു അതിനാൽ ഈ സ്ഥാനത്ത് എന്ത് സംഭവിക്കും അതിനാൽ ആദ്യം നമുക്ക് ഈ ഇന്റഗ്രൽ ഇവിടെ തുറക്കാം അതിനാൽ ആദ്യത്തേത് ആയിരിക്കും ഈ ഇന്റഗ്രൽ ആദ്യ പദം 0 ൽ നിന്ന് വലത്തോട്ട് എവിടെ നിന്ന് പോകും കാരണം ആദ്യത്തെ പൾസ് ആയിരിക്കും ആദ്യ പൾസ് ഫസ്റ്റ് സെഗ്മെന്റിൽ മാത്രം പൂജ്യമല്ല മറ്റെല്ലായിടത്തും 0 ആയിരിക്കും അതിനാൽ ഈ സംയോജന പരിധിയിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ നിന്ന് 0 ആയി മാറും അത് ആ ഭാഗത്തിന് 1 ആണ് അതിനാൽ എനിക്ക് ഒരു ഉണ്ടായിരിക്കും ഇവിടെ എനിക്ക് എന്ത് ഉണ്ടായിരിക്കും എന്തായിരിക്കും രണ്ട് വാദങ്ങൾ അതിനാൽ ആദ്യത്തേത്അതിനാൽ പ്രശ്നമൊന്നുമില്ലെന്ന് നമുക്ക് അത് ശരിയാക്കാം ഞാൻ ഇവിടെ ചില പോയിന്റ് തിരഞ്ഞെടുത്തു അതിനാൽ ഇവിടെ വരുന്നു ആദ്യ ടേം പോലെ തന്നെ തുടരുന്ന ഏകീകരണത്തിന്റെ എന്റെ ലിമിറ്റ് വേരിയബിൾ ആണ് രണ്ടാമത്തെ ടേം ഇപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് പാറ്റേൺ ഡെൽറ്റ മുതൽ 2 ഡെൽറ്റ വരെ കാണാൻ കഴിയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പൾസ് പൂജ്യമല്ലാത്തത് എനിക്ക് അത്തരം എത്ര നിബന്ധനകൾ ഉണ്ടാകും N നിബന്ധനകൾ ശരിയാണ് അതിനാൽ ഈ അവസാന പദത്തിന് ഇത് ഉണ്ടായിരിക്കും ഇത് ആകെ നീളം മുതൽ നീളം വരെയും പിന്നെയും അതിനാൽ ഞങ്ങൾ ആകെ ചെയ്ത സംഗ്രഹം വിപുലീകരിച്ചു ഈ അവിഭാജ്യത തീർച്ചയായും വ്യത്യസ്തമായിരിക്കും ഈ അവിഭാജ്യവും ഈ അവിഭാജ്യവും അവ ഒരുപോലെയാകില്ല കാരണം ഫംഗ്ഷൻ ഒരേപോലെ ഇരിക്കുന്നു എന്നാൽ സംയോജനത്തിന്റെ പരിധി വ്യത്യസ്തമായതിനാൽ ഇന്റഗ്രൽ വ്യത്യസ്തമായിരിക്കും അതിനാൽ പൾസ് ബേസ് ഫംഗ്ഷനുകൾ തിരഞ്ഞെടുത്ത് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന ആശയത്തിൽ നിന്ന് ആരംഭിച്ച് വിപുലീകരണം തുറക്കുന്ന പൾസ് ബേസ് ഫംഗ്ഷനുകൾ എത്ര വേരിയബിളുകൾ N വേരിയബിളുകൾ ഈ N വേരിയബിളുകൾ ഏതൊക്കെ എന്നതിൽ നമുക്ക് ഒരു സമവാക്യമുണ്ട് അതിനാൽ ഈ പ്രക്രിയ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ ഇത് പൊതുവായി നിലനിർത്തുന്നത് നമുക്ക് രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രം നൽകിയിട്ടുണ്ട് ഇതിനുള്ള പരിഹാരം ലഭിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അജ്ഞാതർ ഉണ്ട് എനിക്ക് സമവാക്യങ്ങൾ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ പൊരുത്തപ്പെടുന്ന പോയിന്റുകൾക്കുമായി ഈ പ്രക്രിയ തുടരും എന്നതാണ് അതിനാൽ ഞങ്ങൾ ഏത് പൊരുത്തപ്പെടുന്ന പോയിന്റുകൾ തിരഞ്ഞെടുക്കും ഈ ഓരോ n സെഗ്മെന്റിന്റെയും കേന്ദ്രമായി ഞങ്ങൾ y തിരഞ്ഞെടുക്കും n സെഗ്മെന്റുകൾ ഉള്ളതിനാൽ ഓരോ സെഗ്മെന്റിനും ഒരു കേന്ദ്രമുണ്ട് വലത്തോട്ട് മുകളിലേക്ക് അതിനാൽ മുമ്പത്തെപ്പോലെ നമുക്ക് ലഭിക്കുന്ന ആദ്യ സമവാക്യം എനിക്ക് 0 മുതൽ ഈ കാര്യത്തിലേക്ക് അവിഭാജ്യമുണ്ടാകും ക്ഷമിക്കണം അവർ ഇനി ഇതായിരിക്കില്ല കാരണം ഞാൻ അത് g ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു ഇത് ശരിയായിരിക്കും ഞാൻ g യുടെ മൂല്യം ആ സെഗ്മെന്റിൽ 1 ആക്കി മാറ്റി അവസാനമായി എനിക്ക് എൽ ലേക്കുള്ള എല്ലാ വഴിയും ഉണ്ടായിരിക്കും കൂടാതെ ഓരോ പൊരുത്തമുള്ള പോയിന്റുകൾക്കും ഞാൻ ഇത് ആവർത്തിക്കും അവസാന മാച്ചിംഗ് പോയിന്റ് ഏറ്റവും അവസാനം വലതുവശത്തായിരിക്കും അതിനാൽ അവസാനം എനിക്ക് എന്ത് ലഭിക്കും അതിനാൽ വീണ്ടും ആദ്യ ടേം 1 0 മുതൽ ത്രികോണം അല്ലെങ്കിൽ ഡെൽറ്റ ആദ്യ ടേം ആയിരിക്കും ഒടുവിൽ അവസാന ടേം വലത് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് N സമവാക്യം ലഭിച്ചു എന്നതാണ് N വേരിയബിളുകൾ നമുക്ക് ശരിയായി പരിഹരിക്കാൻ കഴിയുന്നതുപോലെ തോന്നുന്നു അതിനാൽ നിങ്ങൾ ഇത് വ്യവസ്ഥാപിതമായി ചെയ്യുകയാണെങ്കിൽ വലതുവശത്തുള്ള ഇവരെല്ലാം ക്ഷമിക്കണം ഇടതുവശത്ത് ഒരു നിര വെക്റ്റർ വലത് ആക്കി മാറ്റാം അതിനാൽ എനിക്ക് ഇവരെയെല്ലാം എടുത്ത് അവരെ ഒരു കോളം വെക്റ്റർ b വലത്തേക്ക് ഇടാം കൂടാതെ ഈ സമവാക്യങ്ങൾക്കെല്ലാം a 1 a 2 a 3 വേരിയബിളുകൾ ഒരു സ്ട്രിംഗിൽ വലത് വശത്ത് n വരെ ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ കോളം വെക്ടറുള്ള ഒരു വരി വെക്ടറിന്റെയെങ്കിലും ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നം എന്താണെന്ന് തോന്നുന്നു അപ്പോൾ കോളം വെക്റ്റർ എന്തായിരിക്കണം വിദ്യാർത്ഥി എൻ ക്രോസ് എൻ കോളം വെക്റ്റർ ആയിരിക്കും വിദ്യാർത്ഥി a യുടെ വിദ്യാർത്ഥി aയുടെ a യുടെ കോളം വെക്റ്റർ ആയിരിക്കും അതിനാൽ ഇത് ഇവിടെ ഒരു കോളം വെക്ടറായിരിക്കുമെന്ന് എനിക്ക് കാണാൻ കഴിയും അതിനാൽ അത് വരെ ആയിരിക്കും ഇതിന്റെ ആദ്യ വരി ഈ പദങ്ങൾ ശരിയായിരിക്കും ഈ അവിഭാജ്യമാണ് ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട് അതുപോലെ ഞാൻ അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ ഇത് മറ്റൊരു mth വരിയാണ് അതിനാൽ അതെല്ലാം ഒരു മാട്രിക്സിലേക്ക് കൂട്ടിച്ചേർക്കാം ഈ മാട്രിക്സിന്റെ വലുപ്പം വിദ്യാർത്ഥി N ക്രോസ് ഇതാണ് ഈ ബി ഇവിടെയും ശരിയാണ് അതിനാൽ x എന്നത് അജ്ഞാത വെക്ടറായിരിക്കുന്നിടത്ത് Ax is equal to b എന്ന് പറയാം എന്നതിലേക്ക് ഞാൻ ഇത് മാറ്റിയെഴുതി അതിനാൽ എല്ലാ അവിഭാജ്യ സമവാക്യങ്ങൾക്കുമായി ഞങ്ങൾ പിന്തുടരുന്ന സമീപനം ഇതായിരിക്കും എന്നതിന്റെ ലക്ഷ്യം ഇതായിരിക്കും എങ്ങനെയെങ്കിലും അതിനെ ആക്സിലേക്ക് എത്തിക്കുക എന്നത് x ന് A b എന്നിവ അറിയപ്പെടുന്നിടത്ത് b ന് തുല്യമാണ് അതിനാൽ ഇതാണ് നിങ്ങളുടെ കാര്യം x അജ്ഞാതമാണ് ഈ മാട്രിക്സിന്റെ m n ഘടകം a എന്നതിന് വളരെ നല്ല ഒരു പൊതു പാറ്റേൺ ഉയർന്നുവരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ m എന്ന മാച്ചിംഗ് പോയിന്റിൽ നിന്നാണ് m വരുന്നത് അതിനാൽ mth എന്നത് വരിയുമായോ നിരയുമായോ യോജിക്കുന്ന പോയിന്റാണ് ഒരു പ്രത്യേക സമവാക്യത്തിനോ ഒരു പ്രത്യേക കോളത്തിനോ പൊരുത്തപ്പെടുന്ന പോയിന്റ് ഏതാണ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു വിദ്യാർത്ഥി സമവാക്യം സമവാക്യം വലത് അതിനാൽ വരി നമ്പർ അതാണ് ശരി അതിനാൽ ഇത് മാച്ചിംഗ് പോയിന്റിൽ നിന്ന് വരുന്നതുപോലെയാണ് n ഓവർ ഇവിടെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ നിന്ന് വലത്തേക്ക് വലത്തോട്ട് പോകുന്നു അതിനാൽ അത് എന്നോട് ഉറവിട പോയിന്റ് ശരിയാണ് അതിനാൽ നിങ്ങളുടെ പൊരുത്ത പോയിന്റ് ഇവിടെയും നിങ്ങളുടെ ഉറവിട പോയിന്റ് ഇവിടെയും അവസാനിച്ചു നിങ്ങൾക്ക് പൾസ് അല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനമുണ്ടെങ്കിൽ ഞാൻ അത് പൊതുവായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനാൽ എനിക്ക് ഒരു മാട്രിക്സ് എലമെന്റ് ലഭിച്ചു ഞാൻ അത് ഇവിടെ എഴുതിയിട്ടില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ബിഎം എന്താണെന്ന് കാണുന്നത് നിസ്സാരമാണോ വെക്ടറിന്റെ mth ഘടകങ്ങൾ b എന്താണിത് ശരിയാണ് അതിനാൽ മറ്റ് പ്രശ്നങ്ങളിൽ ഇത് വളരെ ലളിതമായി മാറി ഇത് അത്ര ലളിതമല്ല അതിനാൽ ഞങ്ങൾ എങ്ങനെ ഒരു സമവാക്യ വ്യവസ്ഥയിൽ എത്തി എന്നതിന്റെ വിവരണം ഇത്തരത്തിൽ പൂർത്തിയാക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ പ്രശ്നം വിവേചനാധികാരം ഉപയോഗിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്തു അത് അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം തിരഞ്ഞെടുത്തു നിങ്ങളുടെ സമഗ്ര സമവാക്യം വിപുലീകരിക്കുന്നതിന് ആ അടിസ്ഥാന ഫംഗ്ഷനുകൾ ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് സമവാക്യങ്ങളുടെ ഒരു ലീനിയർ സിസ്റ്റം നൽകുകയും ഞങ്ങൾ അത് പരിഹരിച്ച സമവാക്യങ്ങളുടെ ഒരു പ്രത്യേക സെറ്റാക്കി മാറ്റുകയും ചെയ്യുക അതിനാൽ ഇത് നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ശരിയായ ആദ്യ ചോദ്യമായിരിക്കും ഞാൻ 2 3 4 ന് തുല്യമായ n തിരഞ്ഞെടുക്കണോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും പറയൂ വിദ്യാർത്ഥി കഴിയുന്നത്ര വലുത് കഴിയുന്നത്ര വലുത് അതിനാൽ n വലുത് നിങ്ങൾക്ക് അവബോധപൂർവ്വം കാണാൻ കഴിയും നിങ്ങൾ അടയ്ക്കേണ്ട വിലയുടെ യഥാർത്ഥ ഫംഗ്ഷൻ എനിക്ക് ഏകദേശം കണക്കാക്കാൻ കഴിയും വിദ്യാർത്ഥി ഉയർന്നത് ഉയർന്ന കമ്പ്യൂട്ടേഷണൽ സമയം അതിനാൽ n നുള്ള ഒരു വ്യക്തമായ ട്രേഡ് ഓഫ് ആണ് ഈ മാട്രിക്സ് ഘടകത്തെ വിലയിരുത്തുന്നതിന് നിങ്ങളുടെ ഗാസ് ലെജൻഡ്രെ ക്വാഡ്രേച്ചർ നിയമങ്ങളോ മറ്റേതെങ്കിലും ക്വാഡ്രേച്ചർ നിയമങ്ങളോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ ഈ പ്രശ്നത്തിൽ ഇത് വളരെ ചെറിയ കളിപ്പാട്ട പ്രശ്നമാണ് അതിനാൽ നിങ്ങൾ ഒരു കാര്യക്ഷമമല്ലാത്ത ക്വാഡ്രേച്ചർ റൂൾ തിരഞ്ഞെടുത്താലും അത് കാര്യമാക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും യഥാർത്ഥ ജീവിത സംവിധാനങ്ങൾ നിങ്ങൾ ഒരു വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ കണക്കാക്കുന്നു എന്ന് പറയാം നിങ്ങളുടെ ക്വാഡ്രേച്ചർ റൂളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോയിന്റുകളുടെ എണ്ണം ഈ അവിഭാജ്യ മൂല്യനിർണ്ണയം നടത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനടുത്ത് മൂലകങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് ഇത് 1 ലക്ഷം തവണയോ വലിയ തവണയോ ചെയ്യേണ്ടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ദശലക്ഷം തവണ അറിയാമോ മാട്രിക്സ് മൂലകങ്ങളെ വിലയിരുത്തുന്നതിനുള്ള നിങ്ങളുടെ ചെലവ് b ന് തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യതയിലേക്ക് ഇത് നൽകാൻ കഴിയുന്നത്ര കാര്യക്ഷമമായ അകലം ആവശ്യമാണ് അതിനാൽ അത് മാട്രിക്സ് ഉണ്ടാക്കുന്നതിനുള്ള ചെലവാണ് രണ്ടാമത്തേത് അതിന്റെ വിലയാണ് ഒരു x പരിഹരിക്കുന്നത് b ന് തുല്യമാണ് അതിനാൽ അതിൽ സംഖ്യാ രേഖീയ ബീജഗണിതത്തെക്കുറിച്ചുള്ള മറ്റൊരു കോഴ്സ് ഉൾപ്പെടുന്നു കോടാലി പരിഹരിക്കുന്നതിന് രണ്ട് വഴികളുണ്ട് ബിക്ക് തുല്യമായ രണ്ട് കാര്യങ്ങൾ ഞാൻ ഏകദേശം നിങ്ങളോട് പറയും നിങ്ങളെല്ലാം ഹൈസ്കൂളിൽ പഠിച്ച ഡയറക്ട് മെത്തേഡാണ് ഗൌസിയൻ എലിമിനേഷൻ എന്ന് പറയുന്നത് MATLAB വാക്യഘടന വളരെ ലളിതമായ ഒരു സ്ലാഷ് ബി ശരിയാണ് അതാണ് ഞങ്ങൾ ഒരു പരിഹാരം നേടുന്നത് രണ്ടാമത്തേത് പരോക്ഷ രീതികൾ എന്ന് വിളിക്കപ്പെടുന്നതാണ് അതിനാൽ പരോക്ഷ രീതികൾ ആവർത്തന രീതികളാണ് അതിനാൽ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ കൺജഗേറ്റ് ഗ്രേഡിയന്റ് രീതി എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ആവർത്തന രീതികളുടെ ഒരു കുടുംബം മുഴുവനും ഉണ്ട് അത് നിങ്ങൾക്ക് ഒറ്റ ഷോട്ടിൽ ഉത്തരം നൽകില്ല ഞങ്ങൾ ചില ഊഹങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും ഊഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അതിനാൽ പ്രശ്നത്തിന്റെ വലുപ്പം വളരെ വലുതാണെങ്കിൽ നിങ്ങൾ ആവർത്തന രീതികൾ അവലംബിക്കേണ്ടതുണ്ട് കോഴ്സ് പോകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും MATLAB ലും ഇവയെല്ലാം നന്നായി നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ കോടാലി പരിഹരിക്കുന്നതിനുള്ള വഴികൾ ബി തുല്യമാണ് എന്നാൽ നിങ്ങൾ എങ്ങനെ ശരിയായി തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങാം അതിനാൽ നിങ്ങൾക്ക് യാഥാസ്ഥിതികമായി കുറച്ച് ചെറിയ n തിരഞ്ഞെടുത്ത് n വലുതും വലുതും ശരിയാക്കാൻ തുടങ്ങാം അതിനാൽ എനിക്ക് ഇവിടെ ചില ഗ്രാഫുകൾ ഉണ്ട് അതിനാൽ ആദ്യത്തേത് N ആണ് 5 ന് തുല്യമാണ് പ്ലോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ rho ആണ് ഇത് എന്റെ y അക്ഷമാണ് അതിനാൽ ഞാൻ 5 സെഗ്മെന്റുകൾ തിരഞ്ഞെടുത്തു എന്താണ് എന്റെ അവകാശത്തിന്റെ വലുപ്പം എന്നതിന്റെ സിസ്റ്റം ഞാൻ അത് പരിഹരിക്കുന്നു എനിക്ക് പരിഹാരം ലഭിക്കുന്നു ക്ഷമിക്കണം ചാർജ് സാന്ദ്രത ഇങ്ങനെയാണ് അവബോധപൂർവ്വം ചാർജ് അവസാനത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് അർത്ഥമാക്കുന്നു തീർച്ചയായും മധ്യഭാഗത്ത് അത് 0 അല്ല 0 ലേക്ക് പോയിട്ടില്ല കാരണം തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞത് പോലെ ചാർജും അത് നിലനിൽക്കും പ്രഭാഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തുലിതാവസ്ഥ ഉണ്ടാകും അത് ശക്തികൾ സന്തുലിതാവസ്ഥയിൽ എവിടെയാണെന്ന് സ്ഥാപിക്കും അതിനാൽ N എന്നത് 5 ന് തുല്യമായത് എന്തുകൊണ്ടാണ് നമ്മൾ n ലേക്ക് 20 ന് തുല്യമാണ് എന്താണ് സംഭവിച്ചത് പരിഹാരം ഇപ്പോൾ അൽപ്പം സുഗമമായി കാണാൻ തുടങ്ങിയെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ചാട്ടങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോഴും ഇവിടെ ഒരു വലിയ ചാട്ടമുണ്ട് എന്നാൽ ഈ ചാട്ടങ്ങൾ ഇപ്പോൾ ചെറുതാണ് അതിനാൽ എനിക്ക് ഫംഗ്ഷനെ നന്നായി കണക്കാക്കാൻ കഴിയും ഇത് N എന്നത് ഇരുപതിന് തുല്യമാണ് ഇത് പരിഹരിക്കാൻ ഞങ്ങൾ വീണ്ടും ഒരു സെക്കൻഡിന്റെ ഒരു ഭാഗം എടുക്കും അതിനാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാൻ യഥാർത്ഥത്തിൽ n എങ്ങനെ തിരഞ്ഞെടുക്കും അതിനാൽ അത് ചെയ്യുന്നതിനുള്ള ഒരു ജനപ്രിയ മാർഗം നിങ്ങൾ എടുക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് N ൽ നിന്ന് ലഭിച്ച പരിഹാരം പറയാം ഇപ്പോൾ ഞാൻ N ൽ നിന്ന് വർദ്ധിക്കുന്നു ഞാൻ M എന്ന വലിയ സംഖ്യയിലേക്ക് പോകുന്നു അവിടെ M എന്നത് N നേക്കാൾ വലുതാണ് എനിക്ക് ആപേക്ഷികമായ മാറ്റം കണ്ടെത്താൻ കഴിയും എന്നതാണ് അതിനാൽ x ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് വ്യത്യാസത്തിൽ എത്ര ഊർജ്ജം ഉണ്ടെന്ന് കണ്ടെത്താൻ എനിക്ക് ഈ വെക്റ്ററിന്റെ മാനദണ്ഡം എടുക്കാം റഫറിംഗ് പരിഹാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് മാനദണ്ഡമെന്ന് എനിക്ക് കണ്ടെത്താനാകും അതിനാൽ ഇവ ഞാൻ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു വഴിയുടെ രണ്ട് മാനദണ്ഡങ്ങൾ എടുക്കുന്നു വിദ്യാർത്ഥി അതിനാൽ x n അതിനാൽ N സെഗ്മെന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്ന പരിഹാരമാണ് x n അതിനാൽ x m എന്നത് തിരഞ്ഞെടുത്ത N നേക്കാൾ വലിയ സംഖ്യയുള്ള പരിഹാരമാണ് ഇവിടെയുള്ള ഈ ആപേക്ഷിക മാറ്റം നമുക്ക് കുറച്ച് എപ്സിലോൺ എന്ന് പറയുന്നതിനേക്കാൾ കുറവായിരിക്കണമെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഈ എപ്സിലോൺ നിങ്ങൾക്ക് 0 1 അല്ലെങ്കിൽ 0 1 അറിയാമെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെയായിരിക്കാം അതിനാൽ നിങ്ങളുടെ ആവശ്യകതയെ ആശ്രയിച്ച് 1 ശതമാനം 5 ശതമാനം എന്നിങ്ങനെയുള്ള എന്റെ പരിഹാരം സ്ഥിരത കൈവരിക്കാനോ ഒത്തുചേരാനോ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ N കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കണക്കുകൂട്ടലിനുള്ള ചെലവ് വളരെ വലുതായിരിക്കും എന്നാൽ പരിഹാരത്തിലെ നിങ്ങളുടെ പുരോഗതി വളരെ കുറവായിരിക്കും അതിനാൽ നിങ്ങൾക്ക് കുറഞ്ഞ വരുമാനം ലഭിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ആ സമയത്ത് നിങ്ങൾ നിർത്തണം അതിനാൽ പരിഹാരത്തിലെ ആപേക്ഷിക മാറ്റത്തെക്കുറിച്ചുള്ള പരിശോധന പോലെ എന്തെങ്കിലും നിങ്ങളുടെ സോൾവറിനുള്ളിൽ നടപ്പിലാക്കുകയും ഈ പരിധി കൈവരിക്കുമ്പോൾ നിർത്തുകയും ചെയ്യുക എന്നതാണ് വ്യവസ്ഥാപിതമായ മാർഗം അപ്പോൾ പരിഹാരം ഒത്തുചേർന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനാൽ ഈ പ്രക്രിയയുടെ പദത്തെ സംഖ്യാ സംയോജനം എന്ന് വിളിക്കുന്നു സമവാക്യങ്ങൾ ശരിയായി പരിഹരിക്കുന്നതിന് ഈ കോഴ്സിലുടനീളം ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രം ഇതാണ് സുഖമാണോ അതിനാൽ ഇത് കൃത്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് N എനിക്ക് ലഭിച്ച പരിഹാരം പരിശോധിച്ച് കൃത്യത മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും വഴികൾ എനിക്ക് n ചെറുതാക്കി നിലനിർത്താൻ കഴിയുന്ന മറ്റെന്തെങ്കിലും ബുദ്ധിമാനായ മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ പരിഹാരം വിദ്യാർത്ഥി അടിസ്ഥാന പ്രവർത്തനം അടിസ്ഥാന പ്രവർത്തനം കുറച്ചുകൂടി ബുദ്ധിപരമായി ശരിയായി തിരഞ്ഞെടുക്കാം ഇവിടെ എന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പൾസുകളായിരുന്നു അതിനാൽ ഒരു കൂട്ടം പൾസുകൾ ഉപയോഗിച്ച് എന്റെ സുഗമമായ പ്രവർത്തനത്തെ ഏകദേശമാക്കാൻ ഞാൻ നിർബന്ധിതനായി അതുകൊണ്ടാണ് എനിക്ക് ധാരാളം പൾസുകൾ ആവശ്യമായി വരുന്നത്